എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്ന കോഴ്സിന്റെ ലക്ച്ചറുകളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് പതിനെട്ടാമത്തെ ലക്ച്ചറാണ് ഇതിൽ രണ്ട് വേരിയബിളുകളുള്ള ഫങ്ക്ഷന്റെ മാക്സിമത്തെയും മിനിമംത്തെയും കുറിച്ചാണ് സംസാരിക്കുന്നത് ഇന്ന് നമ്മൾ പര്യാപ്തമായ അല്ലെങ്കിൽ മതിയായ വ്യവസ്ഥകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ക്രിട്ടിക്കൽ പോയന്റുകൾ ലോക്കൽ മിനിമമാണോ ലോക്കൽ മാക്സിമമാണോ അല്ലെങ്കിൽ സാഡിൽ പോയന്റാണോ എന്നുള്ള രീതിയിൽ സവിശേഷമാക്കുന്നതിനോ പരിശോധിക്കുന്നതിനോ വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തുന്നത് അപ്പോൾ മുമ്പത്തെ ലക്ച്ചറിൽ ഒരു പോയന്റ് ab യുടെ ചുറ്റുവട്ടത്തുള്ള പോയന്റുകളുടെ ഫംഗ്ഷൻ വാല്യുവും ab പോയന്റിലുള്ള ഫംഗ്ഷൻ വാല്യുവും തമ്മിൽ കുറച്ചാൽ കിട്ടുന്ന വ്യത്യാസമായ Δf ചെറിയ തോതിലുള്ള h നും k ക്കും അതിന്റെ ചിഹ്നം മാറ്റുന്നില്ലെങ്കിൽ നമ്മളാ പോയന്റ് ലോക്കൽ മിനിമമോ ലോക്കൽ മാക്സിമമോ ഉണ്ടെന്ന് പറയുന്നു പക്ഷേ അത് അതിന്റെ ചിഹ്നം മാറ്റുകയാണെങ്കിൽ ഇതിനർത്ഥം ഈ പോയന്റ് സാഡിൽ പോയന്റ് ആണെന്നതാണ് അപ്പോൾ ഈ കേസിൽ ഈ Δf ന്റെ സ്വഭാവം അല്ലെങ്കിൽ ചിഹ്നം നമുക്ക് ab എന്ന പോയന്റിന് ചുറ്റും fahbk fab എന്ന ഫംഗ്ഷന്റെ ടെയ്ലെഴ്സ് സീരീസ് എക്സ്പാൻഷൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്താവുന്നതാണ് ഈ പോയന്റ് ab ഒരു ലോക്കൽ മാക്സിമമോ മിനിമമോ ആവണമെങ്കിൽ fx ab0 fyab0 ആയിരിക്കണം ഉദാഹരണത്തിന് ഇവിടെ 5 പോയന്റുകളുണ്ട് ഇവ ഈ വ്യവസ്ഥകൾ നിറവേറ്റുന്നുണ്ട് ഇവിടെയൊരു പോയന്റുണ്ട് അവിടെയുമൊരു പോയന്റുണ്ട് മൊത്തത്തിൽ 5 പോയന്റുകളുണ്ട് ഇനി ഈ ലക്ച്ചറിൽ നമ്മളിവിടെ കണ്ടെത്താൻ പോകുന്നത് ഉദാഹരണത്തിന് ഈ പോയന്റ് ഒരു ലോക്കൽ മിനിമത്തെ പോലെ തോന്നിപ്പിക്കുന്നുവെന്ന് നിങ്ങൾക്ക് കാണാം ഇവിടെയും ഒരു ലോക്കൽ മിനിമം ആണ് ഈ പോയന്റുകളെല്ലാം ലോക്കൽ മാക്സിമം ആണ് പക്ഷെ ഈ ഒരു പോയന്റിൽ ഇതിന്റെ ചുറ്റുവട്ടത്ത് നമ്മൾ ഈയൊരു ദിശയിൽ പോവുകയാണെങ്കിൽ ഈ x ന്റെ ദിശയിൽ എങ്കിൽ ഈ ഫംഗ്ഷൻ കൂടുകയായിരിക്കും നമ്മൾ y ന്റെ ദിശയിൽ പോവുകയാണെങ്കിൽ ഫംഗ്ഷൻ കുറയുകയാണ് അപ്പോൾ ഈ പോയന്റ് ഒരു ലോക്കൽ മിനിമത്തിന്റെയോ മാക്സിമത്തിന്റെയോ പോയന്റല്ല മറിച്ച് അതൊരു സാഡിൽ പോയന്റാണ് ഇനി രണ്ടാം വർഗ്ഗ ഡെറിവേറ്റീവുകളുടെ സഹായത്തോടെ നമ്മളീ പോയന്റുകൾ എല്ലാം ഗണിതപരമായി തിരിച്ചറിയും ഇവിടെ ഇതാണ് പര്യാപ്തമായ വ്യവസ്ഥ അപ്പോൾ ലളിതമാക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ പ്രയോഗങ്ങൾ ഉപയോഗിക്കും rfxx ab sfxy ab tfyy ab ഇനി ഈ ഫംഗ്ഷൻ fxy കണ്ടിന്യൂസ് ആണെന്നും Pab എന്ന പോയന്റിൽ കണ്ടിന്യൂസ് രണ്ടാം വർഗ്ഗ ഡെറിവേറ്റീവുകൾ ഉണ്ടെന്നും കരുതുക ഈ Pab എന്ന പോയന്റ് ക്രിട്ടിക്കൽ പോയന്റ് ആണെങ്കിൽ എങ്കിൽ ഈ പോയന്റിൽ rt s20 ഉം r0 ഉം ആണെങ്കിൽ ഒരു ലോക്കൽ മാക്സിമം ഉണ്ടാവും rt s20 ഉം r0 ഉം ആണെങ്കിൽ ഈ പോയന്റ് ഒരു ലോക്കൽ മിനിമം പോയന്റ് ആയിരിക്കും rt s20 ആണെങ്കിൽ അതൊരു സാഡിൽ പോയന്റ് ആയിരിക്കും rt s20 ആണെങ്കിൽ ഈ ടെസ്റ്റ് പരാജയപ്പെടും അപ്പോൾ ഈ പോയിന്റ് ab യിലെ ഈ ഫംഗ്ഷന്റെ സ്വഭാവം കണ്ടെത്താൻ മറ്റെന്തെങ്കിലും വഴി നമ്മൾ കണ്ടെത്തേണ്ടി വരും ഇനി ഇവിടെ എഴുതിയത് പോലെ ഈ Pab ഒരു ക്രിട്ടിക്കൽ പോയന്റ് ആണെങ്കിൽ കാരണം ഈ പോയന്റ് ഒരു ലോക്കൽ മാക്സിമത്തിന്റെയൊ മിനിമത്തിന്റെയോ സാഡിൽ പോയന്റിനെയോ പോയന്റ് ആവാനുള്ള ഒരു ആവശ്യ വ്യവസ്ഥയാണിത് അപ്പോൾ തീർച്ചയായും ഇതൊരു ക്രിട്ടിക്കൽ പോയന്റ് ആണ് കൂടാതെ ഈ രണ്ടാം വർഗ്ഗ ടെസ്റ്റിന്റെ സഹായത്തോടെ പ്രധാനമായും ഈ rt s2 എന്ന പ്രയോഗത്തിന്റെ മൂല്യം വഴി ഈ പോയന്റ് ലോക്കൽ മാക്സിമം ആണോ മിനിമം ആണോ സാഡിൽ പോയന്റ് ആണോ എന്നും കണ്ടെത്താനാവും ഇവിടെ ഈ rt s2 0 ആയതിനാൽ ഇത് പരാജയപ്പെടുന്നു ഇനി ഈ ഫലം നമുക്കു തെളിയിക്കാം ഈ പ്രയോഗങ്ങൾ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും ഈ Δf എടുക്കാം കാരണം ഈ f ന്റെ സ്വഭാവം ഒരു പോയന്റിന്റെ ചുറ്റുവട്ടത്ത് നിർണയിക്കുന്നത് ഈ Δf ന്റെ ചിഹ്നമാണ് ഇതിന്റെ ടെയ്ലർ സീരീസ് എക്സ്പാൻഷൻ h ലേക്കും പിന്നെ ഏക വർഗ്ഗ പദങ്ങളിലേക്കും പിന്നീട് രണ്ടാം വർഗ്ഗ പദങ്ങളിലേക്കും നയിക്കുമെന്നും നമ്മൾ ആദ്യമേ കണ്ടതാണ് Δfh fx abk fy ab12 h2 fxx2hk fxyk2 fkk a b ⋯ ഈ ab ഒരു ക്രിട്ടിക്കൽ പോയന്റ് ആയതിനാൽ ഈ fx ab യും fy ab യും ഇല്ലാതായി പോകും പിന്നെയുള്ളത് ഈ രണ്ടാം വർഗ്ഗ പദങ്ങൾക്ക് തുല്യമാണ് അതിനാൽ h2 fxx അങ്ങനെയങ്ങനെ Δf12 h2 fxx2hk fxyk2 fkk a b ⋯ ഇനി ഈ Δf ന്റെ സ്വഭാവം ഈ രണ്ടാം വർഗ്ഗ ഡെറിവേറ്റീവ് പദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ലഭിക്കേണ്ടത് അല്ലെങ്കിൽ ആദ്യം ഇവിടെ ഈ മുന്നിട്ടു നിൽക്കുന്ന പദവും ഈ വിസ്താരത്തിൽ ബാക്കിയുള്ള പദങ്ങൾ ഉയർന്ന വർഗ്ഗമുള്ള പദങ്ങളുമായിരിക്കും അപ്പോൾ ഈ പ്രയോഗം ഉപയോഗിച്ച് നമ്മൾ ab എന്ന പോയന്റിൽ fxx r ആണെന്നും fxy s ആണെന്നും fkk t ആണെന്നും എടുത്തിട്ടുണ്ട് Δf12 h2 r2hk sk2 t⋯ ഇനി നമ്മൾ r≠0 എന്ന് അനുമാനിക്കുന്നു ഇവിടെ r0 എന്നും നമുക്ക് അനുമാനിക്കാമെങ്കിൽ t≠0 എന്ന് അനുമാനിക്കാവുന്നതാണ് അതിനാൽ ഇതിലേതെങ്കിലും 1 പൂജ്യമാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ മുന്നോട്ടു പോകാവുന്നതാണ് ഇനി രണ്ടും പൂജ്യമാകുന്ന സാഹചര്യം ആണെങ്കിൽ r0 t0 എന്നാണെങ്കിൽ സ്വാഭാവികമായും ഇവിടെ ഈ രീതിയിൽ തുടരാനാവില്ല പക്ഷേ ഈ കേസിൽ നിന്ന് നേരിട്ട് നമുക്ക് കാണാനാവുന്നത് രണ്ടും പൂജ്യം ആണെങ്കിൽ r0 r0 ആണ് അപ്പോൾ s പൂജ്യം ആയിരിക്കുകയോ അല്ലാതിരിക്കുകയോ ആവാം ഇനി s പൂജ്യം ആണെങ്കിൽ രണ്ടാം വർഗ്ഗ ടെസ്റ്റ് നമുക്ക് ഒന്നും തരില്ല അപ്പോൾ ഉയർന്ന വർഗ്ഗ ഡെറിവേറ്റീവുകളിലേക്കും നമുക്ക് പോവേണ്ടി വരും ഇനി s≠0 ആണെങ്കിൽ എന്താണ് നമുക്ക് ലഭിക്കുക നമുക്ക് ഈ 2 hk യും s പദവും ലഭിക്കും അപ്പോൾ s പോസിറ്റീവോ നെഗറ്റീവോ ആയിരിക്കാം നമുക്ക് s പോസിറ്റീവ് ആണെന്ന് അനുമാനിക്കാം ഇതേ കാര്യം നമുക്ക് s നെഗറ്റീവ് ആകുമ്പോൾ വാദിക്കാം അപ്പോൾ ഇവിടെ ഈ 2 hk പദങ്ങളുണ്ട് ഇനി ഈ h ഉം k ഉം ഉദാഹരണത്തിന് രണ്ടും നെഗറ്റീവാണെങ്കിൽ ഈ hk പദം പോസിറ്റീവായിരിക്കും ഇനി Δf ഇവിടെയുണ്ട് ഇതിലെ മുന്നിട്ടു നിൽക്കുന്ന പദം പോസിറ്റീവാണ് Δf ന്റെ ചിഹ്നത്തെ തീരുമാനിക്കുന്നത് ഈ മുന്നിട്ടുനിൽക്കുന്ന പദമാണെന്ന് മുമ്പത്തെ ലക്ച്ചറിൽ നമ്മൾ ആദ്യമേ ചർച്ച ചെയ്തതാണ് അത് പോസിറ്റീവാണെങ്കിൽ ab എന്ന പോയന്റിന്റെ ചുറ്റുവട്ടത്തുള്ള Δf ന്റെ ചിഹ്നവും പോസിറ്റീവ് ആയിരിക്കും ഇനി ഈ മുന്നിട്ടു നിൽക്കുന്ന പദം നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ ചിഹ്നവും നെഗറ്റീവ് ആയിരിക്കും ഇനി ഈ hk എന്ന പ്രോഡക്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ ഈ Δf പോസിറ്റീവ് ആയിരിക്കും ഈ h നെഗറ്റീവും k പോസിറ്റീവുമാണെങ്കിൽ അല്ലെങ്കിൽ k നെഗറ്റീവും h പോസിറ്റീവുമാണെങ്കിൽ Δf നെഗറ്റീവ് ആയിരിക്കും ഇതിനർത്ഥം ഈ Δf അതിന്റെ ചിഹ്നം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ കേസിൽ തീർച്ചയായും ഇവിടെ സാഡിൽ പോയന്റായിരിക്കും അത് ഈ ഒരു ഫലത്തിൽ നിന്നും ഞാൻ മുമ്പ് കാണിച്ചത് പോലെ ഉറപ്പിക്കാവുന്നതാണ് അതിനാൽ ഇത് വേർതിരിച്ച് ചർച്ച ചെയ്യേണ്ടതില്ല ഇനി r≠0 അല്ലെങ്കിൽ t≠0 ആണെന്ന് വെക്കുക അപ്പോൾ ഇവിടെ നമ്മൾ r≠0 എന്ന് അനുമാനിക്കുകയാണ് അപ്പോൾ ഇതേ കാര്യം നമുക്ക് t≠0 ആകുമ്പോഴും ചെയ്യാവുന്നതാണ് നമ്മൾ r≠0 എന്ന് അനുമാനിക്കുകയാണ് ഇനി ഇതിനെ r കൊണ്ട് ഹരിക്കുകയും r കൊണ്ട് ഗുണിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇവിടെ ഈ പ്രയോഗം ലഭിക്കും കൂടെ ഈ Δf12r ഉം അപ്പോൾ ഈ കേസിൽ നമ്മൾ k2 s2 പദം കൂട്ടിയിട്ടുണ്ട് അതുപോലെ k2 s2 പദം കുറയ്ക്കുകയും k2 rt ഉയർന്ന വർഗ്ഗ പദവും Δf12r h2 r2 2hk rsk2 rt⋯ Δf12r h2 r2 2hk rsk2 s2 k2 s2k2 rt⋯ ഇനി ആദ്യത്തെ മൂന്ന് പദങ്ങളും ഒരു ഹോൾ സ്ക്വയർ ആവും അതിനർത്ഥം Δf12r hrks2 k2 s2k2 rt⋯ ഇവിടെ അവസാനത്തെ രണ്ട് പദങ്ങളിൽ നിന്നും k2 പൊതുവായിട്ടെടുക്കാം Δf12r hrks2k2 ⋯ അപ്പോൾ ഇതാണ് ഇവിടത്തെ പ്രയോഗം Δf12r hrks2k2 ⋯ ഇനി ഇവിടുത്തെ ആദ്യത്തെ കേസ് നോക്കാം അതിൽ നമ്മൾ rt s20 എന്ന് അനുമാനിക്കാം ഈ കേസിൽ എന്താണ് സംഭവിക്കുക ഇത് ഇവിടെ പോസിറ്റീവാണെങ്കിൽ ഇവിടെ ഈ ഹോൾ സ്ക്വയർ പദം ഉണ്ടാവും പിന്നെ ഈ k2 പദവും ഉണ്ട് ഇനി എങ്ങനെയാണ് ഈ r 0 ആണെങ്കിൽ Δf 0 എന്നത് നോക്കാം അപ്പോൾ ഇതിനു പുറമേ r0 r0 എന്നും അനുമാനിക്കുക ഇത് ab പോയന്റിലെ രണ്ടാം വർഗ്ഗ ഡെറിവേറ്റീവാണ് അപ്പോൾ ഈ ഫംഗ്ഷൻ അനുസരിച്ച് പക്ഷേ ഇത് പോസിറ്റീവാണെങ്കിലും നെഗറ്റീവാണെങ്കിലും ഇതൊരു നിശ്ചിത ചിഹ്നം ആയിരിക്കും അപ്പോൾ r0 ആണെങ്കിൽ ഇനി നമ്മൾ Δf പോസിറ്റീവ് എന്തുകൊണ്ടാണ് ആവുന്നത് എന്ന് കാണും ഈ പ്രയോഗം നോക്കുകയാണെങ്കിൽ ഇവിടെ ഇത് പോസിറ്റീവാണ് അപ്പോൾ ഇത് ഉറപ്പായിട്ടും പോസിറ്റീവാണ് ഇനി ചുറ്റുവട്ടത്ത് ഒന്നുകിൽ h പൂജ്യം ആകുമ്പോൾ k പൂജ്യമല്ലാതിരിക്കും അല്ലെങ്കിൽ k പൂജ്യം ആവുമ്പോൾ h പൂജ്യമല്ലാതിരിക്കും രണ്ടും ഒരേ സമയം പൂജ്യം ആവാൻ പറ്റില്ല കാരണം രണ്ടും പൂജ്യം എന്ന് പറയുന്നത് ഇവിടെ ab പോയന്റിൽ നിന്ന് കൊണ്ട് നമ്മൾ ചുറ്റുവട്ടത്തുള്ള പോയന്റിലേക്ക് നോക്കുകയാണ് അപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് ഇവിടെ ഈ പോയന്റ് ab ഉണ്ട് ഇനി ഈ പോയന്റിന്റെ ചുറ്റുവട്ടത്ത് ഈ ദിശയിലുള്ള ഇൻക്രിമെന്റ് h എന്നത് കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് Y ദിശയിലുള്ള ഇൻക്രിമെന്റ് k എന്നതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ചുറ്റുവട്ടത്ത് ഒരു പോയന്റ് ഉണ്ടാകുന്നതിന് ഇവയിലൊന്ന് അല്ലെങ്കിൽ ഇവ രണ്ടും പൂജ്യമല്ലാതെയാവണം ഇവ രണ്ടും പൂജ്യം അല്ലാതിരുന്നാൽ അതിനർത്ഥം k പൂജ്യമല്ല എന്നതാണ് അപ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് പദം ലഭിക്കും ഇവിടെയുള്ള പദം എന്ത് തന്നെയാണെങ്കിലും ഇവിടെയുള്ളത് ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും അങ്ങനെയെങ്കിൽ ഇത് ഒക്കെയാണ് ഇനി k0 ആണെങ്കിൽ h പൂജ്യമല്ലാതാവണം h ചുറ്റുവട്ടത്ത് ഉണ്ടാവണമെങ്കിൽ അത് പൂജ്യമല്ലാതാവണം അപ്പോൾ ഈ കേസിൽ ഈ പദം പൂജ്യമാണ് ഇവിടെ k യും പൂജ്യമാണ് അപ്പോൾ ഇവിടെയുള്ളത് h2 r2 ആണ് ഈ h2 r2 ഒരു പോസിറ്റീവ് പദമാണ് കാരണം h ന് പൂജ്യം ആവാൻ പാടില്ല അപ്പോൾ ഇനി സാഹചര്യം എന്ത് തന്നെയാണെങ്കിലും ഈ rt s2 പോസിറ്റീവ് ആണെങ്കിൽ ഈ Δf പോസിറ്റീവ് ആയിരിക്കും r പോസിറ്റീവ് ആണെങ്കിൽ ഇനി r നെഗറ്റീവ് ആണെങ്കിൽ ഈ ചിഹ്നം മാറുകയുള്ളൂ കാരണം r ഇവിടെ ഇരിപ്പുണ്ട് ബാക്കിയുള്ള ഇടത്ത് ഈ s2 ഉം ഉണ്ട് അപ്പോൾ നമുക്കെന്താണ് ലഭിക്കുന്നതെന്നാൽ r പോസിറ്റീവ് ആണെങ്കിൽ Δf പോസിറ്റീവായിരിക്കും r നെഗറ്റീവ് ആകുമ്പോൾ Δf നെഗറ്റീവായിരിക്കും അപ്പോൾ ഇവിടെ r ന് ഒന്നുകിൽ പോസിറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവോ ഉള്ള സ്ഥിതിക്ക് നമുക്ക് ഒരേ ചിഹ്നമായിരിക്കും ലഭിക്കുക അതിനാൽ r പോസിറ്റീവ് ആണെങ്കിൽ Δf പോസിറ്റീവായിരിക്കും അപ്പോൾ ഈ പോയന്റ് ഒരു ലോക്കൽ മിനിമവും ആയിരിക്കും rt s2 പോസിറ്റീവും r നെഗറ്റീവുമാകുമ്പോൾ പോയന്റ് ലോക്കൽ മാക്സിമവുമായിരിക്കും കാരണം Δf നെഗറ്റീവാകും എന്ന് പറഞ്ഞാൽ ഈ ab പോയന്റ് അതിന്റെ ചുറ്റുവട്ടത്തുള്ളതിനേക്കാളേറെ കൂടുതൽ വലിയ മൂല്യങ്ങൾ എടുക്കുന്നു എന്നതാണ് ഇതിനർത്ഥം ഈ പോയന്റ് ഒരു ലോക്കൽ മാക്സിമം ആണെന്നാണ് ഇനി രണ്ടാമത്തെ കേസിലേക്ക് നീങ്ങുകയാണെങ്കിൽ നമ്മൾ rt s20 എന്നെടുക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക നമ്മൾ k→0 h≠0 എന്ന സാധ്യത എടുക്കാം കാരണം ഒന്ന് പൂജ്യം അല്ലാത്തതാവണമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ k പൂജ്യത്തിലേക്ക് ആണെന്നും h പൂജ്യമല്ല എന്നും നൽകുകയാണ് k→0 എന്നാൽ ഇത് 0 ആണ് h പൂജ്യമല്ല അപ്പോൾ ഇവിടെനിന്ന് നമുക്ക് കിട്ടുന്നത് Δf0 if r0 എന്നാണ് r0 r0 ആണെങ്കിൽ അപ്പോൾ ഈ Δf നെഗറ്റീവായിരിക്കും ഈ കേസിൽ ബാക്കിയുള്ളതൊന്നും മാറുന്നില്ല ഇവിടെ r0 അപ്പോൾ ഈ Δf പോസിറ്റീവാണ് കാരണം h പൂജ്യം അല്ല k പൂജ്യവുമാണ് അപ്പോൾ നമുക്ക് ഇവിടെ h2 k2 പദം ലഭിക്കും അത് പോസിറ്റീവായിരിക്കും പിന്നെ രണ്ടാമത്തെ നിരീക്ഷണത്തിൽ നമുക്ക് k പൂജ്യം അല്ല എന്നുള്ളത് എടുക്കാം അപ്പോൾ k പൂജ്യമല്ല ഈ rt s20 അപ്പോൾ ഇവിടെ നമുക്ക് ഒരു നെഗറ്റീവ് ഇരിപ്പുണ്ട് ഇനി hrks0 എന്ന നിലക്ക് നമ്മൾ ഈ h നെ തിരഞ്ഞെടുക്കുന്നു അപ്പോൾ ഈ ബന്ധം നൽകിയിട്ടുള്ള k യിൽ നിലനിൽക്കും അതിനി എത്ര ചെറുതാണെങ്കിലും നമുക്ക് ഇവിടെയുള്ള h നെ ksr എന്ന് എടുക്കാം k യുടെ വാല്യൂ എന്തുമാവാം അപ്പോൾ ksr ൽ നിന്ന് h തിരഞ്ഞെടുത്താൽ ഈ ആദ്യത്തെ പദമായ hrks0 ആവും കാരണം നമ്മൾ h തിരഞ്ഞെടുത്തത് hrks0 എന്നാവുന്ന രീതിയിൽ ആണ് അപ്പോൾ ഈ പദം പൂജ്യമാണ് ഈ k2 പോസിറ്റീവാണ് പക്ഷേ ഇത് നെഗറ്റീവ് ആണ് ഇത് പൂജ്യത്തെക്കാൾ ചെറുതാണ് അപ്പോൾ മൊത്തത്തിൽ ആദ്യത്തെ പദത്തിൽ r പോസിറ്റീവാണ് അത് ഇപ്പോൾ ഇവിടെ നമ്മൾ പരിഗണിക്കുന്നുണ്ട് ഇത് 0 ആയിരിക്കും Δf0 എന്ന ഈ പദം കാരണം ഈ പോയന്റുകൾ എല്ലാം നിറവേറ്റുന്ന ചുറ്റുവട്ടത്താണ് നമ്മളെങ്കിൽ ഇവിടെ ആദ്യത്തെ പദം ഉണ്ടാവില്ല പിന്നെ ഈ r0 ആണെങ്കിൽ Δf0 നമ്മൾ ഇതിന്റെ ചുറ്റുവട്ടത്തിന് പരിധി നിശ്ചയിക്കുന്നില്ല കാരണം ഈ ബന്ധം നിലനിൽക്കുന്ന ദൂരെയുള്ള ഒരു പോയന്റ് ചിലപ്പോൾ എടുക്കേണ്ടിവരും അതുപോലെ ഈ hrks0 എന്നെടുക്കുമ്പോൾ നമ്മൾ ഈ ab പോയന്റിന്റെ അത്ര അടുത്തായിരിക്കും ഉണ്ടാവുക അതിൽ k ചെറിയ മൂല്യം ആയിരിക്കും പക്ഷേ പൂജ്യമായിരിക്കില്ല അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായതെന്തെന്നാൽ r0 ആണെങ്കിൽ Δf0 r0 ആണെങ്കിൽ Δf0 അപ്പോൾ നമ്മൾ r0 എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായും Δf0 ആയിരിക്കും അപ്പോൾ ഇവിടെ Δf ഇതിന്റെ ചുറ്റുവട്ടത്ത് ചിഹ്നം മാറ്റുന്നുണ്ട് അത് തന്നെയാണ് ക്രിട്ടിക്കൽ പോയന്റുകളുടെ കാര്യത്തിലും ഉള്ളത് അപ്പോൾ rt s20 ആണെങ്കിൽ ഇതൊരു സാഡിൽ പോയന്റായിരിക്കും എന്ന നിഗമനത്തിൽ നമുക്കെത്താം അപ്പോൾ ഇതൊരു സാഡിൽ പോയന്റ് ആണ് അതൊരു മാക്സിമത്തിന്റെയൊ മിനിമത്തിന്റെയോ പോയന്റല്ല കാരണം ഈ Δf ഈ Δf ന്റെ ചിഹ്നം h നെയും k നേയുമാണ് ആശ്രയിച്ചിരിക്കുന്നത് അപ്പോൾ Δf പോസിറ്റീവായ ചുറ്റുവട്ടത്തുള്ള പോയന്റുകൾ ഇതെല്ലാമാണ് അതുപോലെ Δf നെഗറ്റീവ് ആകുമ്പോഴും ചുറ്റുവട്ടത്ത് പോയന്റുകൾ ഉണ്ട് അപ്പോൾ ഇത് ab പോയന്റിന്റെ ചുറ്റുവട്ടത്ത് അതിന്റെ ചിഹ്നം മാറ്റുകയാണ് ഇതിനർത്ഥം ഇതൊരു സാഡിൽ പോയന്റ് ആണെന്നാണ് മൂന്നാമത്തെ സാഹചര്യത്തിൽ നമ്മൾ rt s20 എന്ന് എടുക്കുന്നു ഈ കേസിൽ ഇവിടെ രണ്ടാമത്തെ പദമില്ല rt s20 ആണ് അപ്പോൾ ഇതിന്റെ സ്വഭാവം നിശ്ചയിക്കുന്നത് ആദ്യത്തെ പദമായ hrks2 ന്റെ സഹായത്തോടെയാണ് ഒറ്റനോട്ടത്തിൽ ഇത് പൂജ്യത്തെക്കാൾ വലുതായ പോസിറ്റീവാണെന്നും hrks0 ആണെന്നും കാണാം Δf12r hrks2⋯ hrks2 അതിനാൽ തീർച്ചയായും ≧ 0 ആയിരിക്കും പക്ഷേ പൂജ്യത്തിന് തുല്യമാവാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം ഈ രണ്ടാം വർഗ്ഗ പദം പൂജ്യമായാൽ ഈ Δf ന്റെ സ്വഭാവം പിന്നീട് നമുക്ക് കണ്ടെത്താനാവില്ല കാരണം പിന്നെ അടുത്ത ഉയർന്ന വർഗ്ഗത്തിലുള്ള പദങ്ങൾ ആയിരിക്കും ഇതിന്റെ സ്വഭാവം നിർണയിക്കുന്നത് അതിന് ഈ Δf നെഗറ്റീവാക്കാനും കഴിയും കാരണം ഇത് പൂജ്യം ആയാൽ അടുത്ത പദം ചിഹ്നത്തെ തീരുമാനിക്കും അതിൽ ചിലപ്പോൾ Δf നെഗറ്റീവുമാവാം അപ്പോൾ ഇത് ഇവിടെ ≧ 0 ആണെന്ന് കരുതി നമുക്ക് പെട്ടെന്ന് ഒരു നിഗമനത്തിൽ എത്താൻ കഴിയില്ല ഇനി നമുക്ക് ഇവിടെ ഒരു ഉറച്ച ചിഹ്നം വേണം കാരണം എങ്കിൽ മാത്രമേ നമുക്ക് Δf ഈ ഒരു ചിഹ്നത്തിലായിരിക്കുമെന് പറയാൻ കഴിയുള്ളൂ അപ്പോൾ നമുക്കിവിടെ Δf കൃത്യമായി ≧ 0 ആണെന്ന് തെളിയിക്കാനാവുമെങ്കിൽ എങ്കിൽ നമുക്ക് പോയന്റിനെക്കുറിച്ച് ഒരു നിഗമനത്തിൽ എത്താം പക്ഷേ ഇവിടെ ഇപ്പോൾ ഇത് ≧ 0 ആണ് ഇനി ഇവിടെ നമ്മൾ hrks0 എന്ന നിലക്ക് hr ഉം ks ഉം ചുറ്റുവട്ടത്ത് എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ പോയന്റുകളിലും ഈ പദം പൂജ്യമാവും പിന്നീട് അതിന്റെ സ്വഭാവം നിർണ്ണയിക്കുന്നത് അടുത്ത ഉയർന്ന വർഗ്ഗ പദങ്ങളായിരിക്കും ഇനി ഇത് ഇവിടെ നമുക്ക് എഴുതാം ഇനി ഇവിടെ ഈ h ഉം k യും hrks0 എന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ അതിനർത്ഥം hr ks എന്നാണ് അപ്പോൾ ഇതെല്ലാം Δf 0 ഈ മൂന്നാം വർഗ്ഗ പദങ്ങളാവുന്ന ചുറ്റുവട്ടത്തിലെ പോയന്റുകളാണ് പിന്നെ ഈ വലതുവശത്തുള്ള രണ്ടാം വർഗ്ഗ പദങ്ങൾ ഇല്ലാതാവും അപ്പോൾ ഉയർന്ന വർഗ്ഗത്തിന് അനുസരിച്ചായിരിക്കും ഇതിന്റെ നിർണയം അപ്പോൾ ഈയൊരു സാഹചര്യത്തിൽ Δf ന്റെ ചിഹ്നത്തെ കുറിച്ച് നമുക്ക് ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിയില്ല അത് നെഗറ്റീവാവാം പോസിറ്റീവും ആവാം അപ്പോൾ ഈ പോയന്റുകൾ കണ്ടെത്താൻ മറ്റു പല വഴികളും തിരഞ്ഞെടുക്കേണ്ടി വരും അതിനാൽ ലോക്കൽ എക്സ്ട്രീമ കണ്ടുപിടിക്കുന്നതിനു വേണ്ടിയുള്ള നിയമം എന്തൊക്കെയാണെന്നാൽ • എല്ലാ ക്രിറ്റിക്കൽ പോയന്റുകളും കണ്ടെത്തുക fx0 fy0 • ഓരോ ക്രിട്ടിക്കൽ പോയന്റിനും rfxx sfxy tfyy വിലയിരുത്തുക • തിരിച്ചറിയൽ rt s20 r0 ആണെങ്കിൽ മാക്സിമം rt s20 r0 ആണെങ്കിൽ മിനിമം rt s20 ആണെങ്കിൽ സാഡിൽ പോയന്റ് rt s20 ആണെങ്കിൽ ടെസ്റ്റ് പരാജയപ്പെടുന്നു ഇനി നമ്മൾ ഈ ഉദാഹരണം നോക്കാം ഉദാഹരണം fxyx3 6x2 8y2 ന്റെ എല്ലാ ക്രിട്ടിക്കൽ പോയന്റുകളും കണ്ടെത്തുകയും അവയുടെ ലോക്കൽ മാക്സിമത്തിനും മിനിമത്തിനും സാഡിൽ പോയന്റിനുമുള്ള സ്വഭാവം അന്വേഷിക്കുകയും ചെയ്യുക അതിനാൽ നമ്മൾ ആദ്യം എല്ലാ ക്രിറ്റിക്കൽ പോയന്റുകളെയും കണക്കുകൂട്ടുകയും ഇതിന്റെ ചുറ്റുവട്ടത്ത് ഈ ക്രിട്ടിക്കൽ പോയന്റുകളുടെ സ്വഭാവം കണ്ടെത്തുന്നതിന് ഓരോ ക്രിട്ടിക്കൽ പോയന്റിലും നമ്മൾ rt s2 പദം അന്വേഷിക്കും അപ്പോൾ ഇവിടെ നമുക്ക് ക്രിട്ടിക്കൽ പോയന്റുകൾ fx0 fy0 എന്നാണുള്ളത് fx0 ആവുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക ഈ കേസിൽ ഇത് പൂജ്യം ആയിരിക്കും അപ്പോൾ fy 16y ആയിരിക്കും അതും പൂജ്യമായിരിക്കും അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പൂജ്യം ലഭിക്കും ആദ്യത്തെ സമവാക്യത്തിൽ നിന്ന് 3x0 എന്നും ലഭിക്കും അപ്പോൾ x0 x4 എന്നും ആദ്യത്തെ സമവാക്യത്തിൽ നിന്ന് ലഭിക്കും രണ്ടാമത്തെ സമവാക്യത്തിൽ നിന്നും y0 എന്നും ലഭിക്കും അപ്പോൾ നമുക്ക് 00 എന്നതും 40 എന്നതുമാണ് ക്രിട്ടിക്കൽ പോയന്റുകൾ 00 ലും 40 ആണ് ഈ പ്രശ്നത്തിന്റെ രണ്ട് ക്രിട്ടിക്കൽ പോയന്റുകൾ ഇനി ഈ കേസിൽ നമ്മൾ rt s2 ന്റെ എല്ലാ പോയന്റുകളിലും rt s2 ന്റെ ചിഹ്നം എന്താണെന്നുള്ളത് നമ്മൾ കണക്ക് കൂട്ടും അപ്പോൾ 00 പോയന്റിലെ രണ്ടാമത്തെ ഡെറിവേറ്റീവ് നമുക്ക് ഇവിടെ കണക്ക് കൂട്ടേണ്ടതുണ്ട് അപ്പോൾ fx3x2 12x പിന്നെ fxx6 x 12 fxy0 ആയിരിക്കും കാരണം ഇവിടെ y ന്റെ പദങ്ങൾ ഒന്നും തന്നെയില്ല അപ്പോൾ fxy പൂജ്യം ആവുകയും fy 16 y ആയതുകൊണ്ട് തന്നെ fyy 16 ആവും അപ്പോൾ ഈ മൂന്ന് എണ്ണത്തിന്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ ഈ r കണക്ക് കൂട്ടും അപ്പോൾ fxx 00 12 ആയിരിക്കും s0 ഉം t 16 ഉം ആണ് പിന്നെ ഈ 40 പോയന്റിൽ r എന്നത് 6424 24 12 12 ആണ് അപ്പോൾ ഇത് 12 ആയിരിക്കും s പൂജ്യവും fy ഇവിടെ 16 എന്ന ഒരു കോൺസ്റ്റൻഡാണ് അപ്പോൾ ഈ rt s2 ഈ 2 നെഗറ്റീവ് നമ്പറുകളുടെ ഗുണനഫലം ആണെങ്കിൽ ഇവിടെ 192 കിട്ടും ഈ കേസിൽ അത് 192 ആവും അപ്പോൾ rt s20 ഉം r0 ഉം ആവുമ്പോൾ അത് ലോക്കൽ മാക്സിമത്തിന്റെ ഒരു പോയന്റാവും അപ്പോൾ 00 ലോക്കൽ മാക്സിമത്തിന്റെ ഒരു പോയന്റാണ് ഈ കേസിൽ rt s2 നെഗറ്റീവ് ആയതുകൊണ്ട് പൂജ്യത്തെക്കാൾ കുറവാണ് അതിനാൽ നമ്മൾ മതിയായ വ്യവസ്ഥകളെക്കുറിച്ച് സംസാരിച്ചത് പ്രകാരം അതൊരു സാഡിൽ പോയന്റ് ആണ് ഇനി അവസാനത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ആവശ്യ വ്യവസ്ഥകൾ എന്തെല്ലാമാണെന്നാൽ നമ്മൾ ക്രിട്ടിക്കൽ പോയന്റുകൾ അറിഞ്ഞിരിക്കണം കാരണം ഈ ക്രിട്ടിക്കൽ പോയന്റുകളാണ് ലോക്കൽ മാക്സിമത്തിനും ലോക്കൽ മിനിമത്തിനുമുള്ള കാൻഡിഡേറ്റുകൾ fx0 fy0 എന്നത് നമുക്ക് എക്സ്ട്രീമക്ക് ആവശ്യമായ വ്യവസ്ഥകൾ നൽകുന്നുണ്ട് അപ്പോൾ ഈ പോയന്റുകൾ ആയിരിക്കും നമുക്ക് ആ പോയന്റിലെ ഫംഗ്ഷന്റെ സ്വഭാവം കണ്ടെത്തുന്നതിന് വേണ്ടി അറിയേണ്ടതായിട്ടുള്ള കാൻഡിഡേറ്റുകൾ അപ്പോൾ പര്യാപ്തമായ വ്യവസ്ഥകൾ ഈ ലോക്കൽ മാക്സിമക്കും മിനിമക്കും സാഡിൽ പോയന്റിനും ഉള്ള പോയന്റുകൾ തിരിച്ചറിയാൻ നമ്മെ സഹായിക്കും അതിനാൽ rt s2 പോസിറ്റീവും r നെഗറ്റീവുമാണെങ്കിൽ അതൊരു ലോക്കൽ മാക്സിമം ആയിരിക്കും rt s2 പോസിറ്റീവും r പോസിറ്റീവുമാണെങ്കിൽ അത്തരം പോയന്റുകൾ ഒരു ലോക്കൽ മിനിമം ആയിരിക്കും rt s20 ആണെങ്കിൽ അതൊരു സാഡിൽ പോയന്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന നിർവചനമനുസരിച്ച് അതൊരു മിനിമം പോയന്റോ മാക്സിമം പോയന്റോ ആയിരിക്കില്ല ഒരു സാഡിൽ പോയന്റ് ആയിരിക്കും rt s2 ഇവിടെ പൂജ്യം ആയതിനാൽ നമുക്ക് ഈ പോയന്റിന്റെ സ്വഭാവം തിരിച്ചറിയാനാവില്ല അപ്പോൾ ഈ ടെസ്റ്റ് ഈ രണ്ടാം വർഗ്ഗ ടെസ്റ്റ് പരാജയപ്പെടുന്നു അപ്പോൾ നമുക്ക് മറ്റു വഴികൾ കണ്ടെത്തേണ്ടി വരും ഒന്നുകിൽ ഉയർന്ന വർഗ്ഗ പദങ്ങൾ കണ്ടെത്തുകയോ അല്ലെങ്കിൽ ആ പോയന്റിലെ ഫംഗ്ഷന്റെ സ്വഭാവം നേരിട്ട് കണ്ടെത്തുകയോ വേണം പക്ഷേ തീർച്ചയായും അതിന് വീണ്ടും അന്വേഷണങ്ങൾ ആവശ്യമായി വരും ഇതെല്ലാമാണ് ഈ ലക്ചർ തയ്യാറാക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള റഫറൻസുകൾ അടുത്ത ലക്ച്ചറിൽ നമ്മൾ ലോക്കൽ മാക്സിമത്തിന്റെയും മിനിമത്തിന്റെയും സാഡിൽ പോയന്റിന്റെയും സ്വഭാവം തിരിച്ചറിയാൻ വേണ്ടി കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കും നന്ദി